വെക്റ്റർ പൊട്ടൻഷ്യലിനുള്ള സമവാക്യം കറന്റ് ഡെൻസിറ്റി ഉപയോഗിച്ച് 1 ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മാഗ്നെറ്റിക് ഫീൽഡ് കാരണമുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ A നെകുറിച്ചാണ് സംസാരിച്ചത് വെക്റ്റർ പൊട്ടൻഷ്യൽ A എന്നത് ArB എന്ന് ലഭിക്കുന്ന രീതിയിലായിരിക്കും എടുക്കുന്നത് മാത്രമല്ല നമ്മൾ കണ്ടുകഴിഞ്ഞു വെക്റ്റർ പൊട്ടൻഷ്യൽ ഇവിടെ j r എന്നത് കറന്റ് ഡെൻസിറ്റി ആണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പല കറന്റ് വിന്യാസത്തിനും അനുബന്ധമായുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ A കണ്ടുപിടിച്ചു ഈ ക്ലാസ്സിൽ ഞാൻ ചാർജ് ചെയ്ത ഒരു ഗോളം അല്ലെങ്കിൽ ചാർജ് ചെയ്ത ഒരു ഷെൽ പോലുള്ള ഒരു പ്രത്യേക ഉദാഹരണം എടുക്കുകയാണ് ഇലക്ട്രിക്ക് ഫീൽഡ് കാണാനായി നമ്മൾ ചാർജുള്ള ഒരു ഷെൽ എടുത്തിരുന്നല്ലോ അവിടെ Z ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ് ആയി എടുത്തിരുന്നു അപ്പോൾ സർഫേസ് ചാർജ് ഡെൻസിറ്റി അഥവാ ഉപരിതല ചാർജ് ഡെൻസിറ്റി എന്ന് ലഭിച്ചു ഈ ചാർജ് വിന്യാസം കാരണം ഷെല്ലിനുള്ളിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് 0 30 ആയിരിക്കും ഷെല്ലിന് പുറത്ത് ഇത് p മോമെന്റ്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ പോലെ വർത്തിക്കുന്നു ഇതിനോട് സമാനമായി മാഗ്നെറ്റിക് ഫീൽഡ് കാരണമുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനും നമ്മൾ ഇവിടെ ഒരു ഗോളം അല്ലെങ്കിൽ ഒരു ഷെൽ എടുത്തിരിക്കുന്നു സർഫേസ് കറന്റ് ഡെൻസിറ്റി K ആണെന്നിരിക്കട്ടെ സർഫേസ് കറന്റ് ഞാനിവിടെ ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്നു ഇത് ഉപരിതലത്തിൽ മാത്രം ഒഴുകുന്നു സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് എഴുതിയാൽ ഇതിന്റെ ദിശ ϕ ആണ് ഇത് ഒരു നിശ്ചിത ആംഗുലാർ സ്പീഡ് ൽ കറങ്ങുന്ന ചാർജ് ചെയ്ത ഷെല്ലിൽ ഉള്ള കറന്റ് ആവാം അതിനർത്ഥം ഇത് ഒരു കാന്തിക ഗോളത്തിനു സമാനമാണ് എന്നാണ് നമുക്ക് ഉപരിതലത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈനിൽ കൂടിയുള്ള കറന്റ് എത്ര എന്ന് നോക്കാം ഗോളത്തിന്റെ റേഡിയസ് R ആണെങ്കിൽ ഈ ലൈനിന്റെ നീളം R d ആണ് അപ്പോൾ ഈ R d യിൽ കൂടിയുള്ള കറന്റ് ϕ ദിശയിൽ ആയിരിക്കും ഈ കറന്റ് ഉണ്ടായിരിക്കുക വെക്റ്റർ പൊട്ടൻഷ്യൽ A എന്നത് നിർവചനമനുസരിച്ച് എന്നെടുക്കാം കറന്റ് ഡെൻസിറ്റി j ഉപരിതലത്തിൽ മാത്രം ഉള്ളതായതുകൊണ്ട് R എന്നത് ഗോളത്തിന്റെ റേഡിയസ് ആണ് അടുത്തതായി j യുടെ സബ്സ്റ്റിട്യൂഷൻ ചെയ്ത് ലൈൻ ഇന്റഗ്രൽ സർഫേസ് ഇന്റെഗ്രേലാക്കി മാറ്റി എഴുതാം അപ്പോൾ ഇവിടെ R എന്നത് ഉപരിതലത്തിലേക്ക് ഉള്ള വെക്ടറും r എന്നത് നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണുന്ന ബിന്ദുവിലേക്കുള്ള വെക്ടറുമാണ് K എന്നത് സർഫേസ് കറന്റിന്റെ അളവും ϕ എന്നത് ഇതിന്റെ ദിശയും ആണ് നമുക്ക് ഈ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടു പിടിക്കാം നേരത്തെ കിട്ടിയ ഇക്വേഷൻ വിപുലീകരിച്ച് എഴുതിയാൽ ds എന്നത് ഗോളത്തിന്റെ ഉപരിതലത്തിലുള്ള ഒരു സൂക്ഷ്മ ഏരിയ ആണ് R എന്നത് ഉപരിതലത്തിലേക്കുള്ള റേഡിയസ് വെക്ടറും r എന്നത് വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനുള്ള ബിന്ദുവിലേക്കുള്ള റേഡിയസ് വെക്ടറും ആണ് ഇവിടെ ഇവിടെ ഓർക്കാനുള്ള ഒരു കാര്യം R എന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ് എന്നതാണ് R എന്നതിൽ ഇന്റഗ്രേഷനിൽ വരുന്ന വേരിയബിൾസ് ആയ ϕഇവ അടങ്ങിയിരിക്കുന്നു എന്ന് ഇങ്ങനെ എഴുതിയതിൽ നിന്നും വ്യക്തമാണല്ലോ അടുത്തതായി ds എത്രയാണെന്ന് നോക്കാം

ഇന്റഗ്രേഷൻ നടത്തുന്നത് ഒരു സ്ഫെറിക്കൽ സർഫേസിൽ ആയത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അടുത്തതായി A കാണാനുള്ള ഈ ഇന്റഗ്രൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നു നോക്കാം ആദ്യം ഇത് ഒന്നുകൂടെ എഴുതിയിട്ട് ഇതിന്റെ ഉത്തരം കണ്ടതിനു ശേഷം വെക്റ്റർ പൊട്ടൻഷ്യൽ A നമുക്ക് വിശദമായി നോക്കാം അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായുള്ള സമാനതകൾ ഉപയോഗിച്ച് മാഗ്നെറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ A കാണുന്നതെങ്ങനെയെന്നു നോക്കാം നമുക്കിതുവരെ കിട്ടിയത് ഈ ഇന്റെഗ്രേലുകൾ എന്താണെന്ന് മാത്രം സൂചിപ്പിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി വിശദമായി ചർച്ച ചെയ്യാം ഇവിടെ ϕഇവ R ന് അനുബന്ധമായുള്ളതാണ് ഇവിടെ r R ആകുമ്പോൾ രണ്ടു ഇക്വേഷനും തുല്യമാകുന്നു ഇതേപോലെ അടുത്ത ഇന്റഗ്രൽ എടുത്താൽ അപ്പോൾ നമുക്ക് രണ്ടു ഇന്റഗ്രലും ϕ യിലും cos ϕ യിലും കിട്ടിയിരിക്കുന്നു

അടുത്തതായി മാഗ്നെറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം B Ar നമുക്കറിയാം Ar ന് ϕ കംപോണേന്റ് മാത്രമേയുള്ളൂ നമ്മൾ Ar ന്റെ ഇക്വേഷൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കേൾ കാണാനായി സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചുള്ള സ്റ്റാൻഡേർഡ് ഫോർമുല എടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാഗ്നെറ്റിക് ഫീൽഡ് B ലഭിക്കുന്നു അതായത് അപ്പോൾ നമ്മൾ സർഫേസ് കറന്റ് ഡെൻസിറ്റി K K ϕ ആയിട്ടുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഷെൽ എടുത്താൽ ഇതിന്റെ ഉള്ളിലുള്ള ഫീൽഡ് കോൺസ്റ്റന്റ് ആണ് ഇവിടെയുള്ള സ്ഥിതി വിശേഷം 𝝈𝝷 𝝈0 cos 𝛉 സർഫേസ് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു ഷെല്ലിന്റെ ഉള്ളിലുണ്ടാകുന്ന കോൺസ്റ്റന്റ് ഇലക്ട്രിക്ക് ഫീൽഡിന് സമാനമാണ് ഷെല്ലിന് പുറത്തു ഫീൽഡ് എങ്ങനെയായിരിക്കും നേരത്തേ ഇലക്ട്രിക്ക് ഫീൽഡ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഇത് ഒരു ഡൈപോൾ ഫീൽഡ് പോലെ തന്നെ ആയിരിക്കുമെന്ന് ഇതിനോട് സമാന പ്രശ്നങ്ങൾ ഇലക്ട്രിക്ക് ഫീൽഡ് പഠിച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇവിടെ മാഗ്നെറ്റിക് ഫീൽഡിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയുള്ള വ്യത്യാസം സർഫേസ് കറന്റ് ഡെൻസിറ്റി sin 𝛉 യുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ ക്ലാസ് പൂർത്തിയാക്കുന്നതിനു മുൻപായി ഷെല്ലിന്റെ പുറത്തുള്ള ഫീൽഡ് ഒരു മാഗ്നെറ്റിക് ഡൈപോൾ ഫീൽഡിന് തുല്യമാണെന്നുകൂടി നമുക്ക് തെളിയിക്കാം അതിനായി നമുക്ക് ഷെല്ലിന്റെ ബാഹ്യഭാഗത്തുള്ള മാഗ്നെറ്റിക് ഫീൽഡ് B യുടെ ഇക്വേഷൻ എഴുതാം

മാഗ്നെറ്റിക് മോമെന്റ്റ് m ആയിട്ടുള്ള ഒരു മാഗ്നെറ്റിന്റെ ഫീൽഡ് നമുക്ക് മാഗ്നെറ്റിക് മോമെന്റ്റ് m ന്റെ ദിശ Z എന്നെടുക്കാം അതായത് m m z അപ്പോൾ അതായത് ഇവിടെ കിട്ടിയ റിസൾറ്റിലും നേരത്തെ നമുക്ക് ഷെല്ലിന്റെ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ കണ്ട അതെ cosθ sinθ ബന്ധം തന്നെയാണ് ഉള്ളത് ഈ റിസൾട്ട് നമുക്ക് നേരത്തെ എഴുതിയ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനുമായി താരതമ്യം ചെയ്തു നോക്കാം അപ്പോൾ ഇതിനർത്ഥം K സർഫേസ് കറന്റ് ആയിട്ടുള്ള ഒരു ഗോളത്തിന് എന്ന മാഗ്നെറ്റിക് മോമെന്റ്റ് ഉണ്ടായിരിക്കും എന്നതാണ് അതായത് ഗോളത്തിനു പുറത്തുള്ള ഫീൽഡ് m K മാഗ്നെറ്റിക് മോമെന്റ്റ് ആയിട്ടുള്ള ഒരു ഡൈപോളിന്റെ ഫീൽഡ് പോലെയും ഗോളത്തിനുള്ളിൽ കോൺസ്റ്റന്റ് ഫീൽഡും ആയിരിക്കും